ഈ പ്രത്യേക പ്രഭാഷണത്തിൽ ഞങ്ങൾ ഡാറ്റ മാനേജുമെന്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും അതിനാൽ IIoT ഇൻഡസ്ട്രി 4 0 എന്നിവയുടെ പശ്ചാത്തലത്തിൽ മാത്രമല്ല മൊത്തത്തിൽ എന്താണ് ഡാറ്റ മാനേജ്മെന്റ് അതിനാൽ മൊത്തത്തിൽ ഡാറ്റ മാനേജുമെന്റ് എന്താണെന്നതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതിനുശേഷം ഹഡൂപ്പുമായി ഡാറ്റ മാനേജ്മെൻറ് നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നു അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങൾ ശ്രദ്ധിച്ച ഈ പ്രത്യേക മൊഡ്യൂൾ വ്യത്യസ്ത സാങ്കേതികവിദ്യകളുടെയും മറ്റും സഹായത്തോടെ വിശകലനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതിനാൽ മെഷീൻ ലേണിംഗ് ഉൾപ്പെടെയുള്ള വിവിധ വിശകലന സാങ്കേതികതകളിൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിൽ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു കൂടാതെ ഞങ്ങൾ മനസ്സിലാക്കിയ മെഷീൻ ലേണിംഗ് AI തുടങ്ങിയവയും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനാൽ നിങ്ങൾക്ക് ഈ വിശകലനങ്ങളെല്ലാം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങനെയാണ് ഈ ഡാറ്റ കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾ ഈ ഡാറ്റ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതിനാൽ മൊത്തത്തിൽ ഡാറ്റ മാനേജുമെന്റാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഐഐഒടിയുടെ പശ്ചാത്തലത്തിൽ ഡാറ്റാ മാനേജ്മെന്റ് അടുത്തതായി എന്താണ് മനസ്സിലാക്കാൻ പോകുന്നത് അതിനുശേഷം ഞങ്ങൾ ഗിയർ മാറാൻ പോകുന്നു ഉപയോഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഡാറ്റ മാനേജ്മെന്റ് എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കും ഹദൂപ് അതാണ് ഞങ്ങൾ പിന്നീട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് അതിനാൽ ഡാറ്റാ മാനേജ്മെന്റ് അടിസ്ഥാനപരമായി നമ്മൾ സംസാരിക്കുമ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഡാറ്റ സംഭരിക്കൽ ഡാറ്റ ആർക്കൈവുചെയ്യൽ എന്നിട്ട് തീയതി ഉപയോഗിച്ചുകഴിഞ്ഞാൽ പിന്നെ ഡാറ്റ നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല ഡാറ്റ പ്രോജക്റ്റ് പൂർത്തീകരണ ആവശ്യകതകൾ മുതലായവയുടെ അവസാനം സുരക്ഷിതമായ രീതിയിൽ ഡാറ്റ സൂക്ഷിക്കുന്നത് ഇവ ഡാറ്റാ മാനേജ്മെന്റിന്റെ വ്യത്യസ്ത ആവശ്യകതകളിൽ ചിലതാണ് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനുള്ള നയ നടപടിക്രമങ്ങളുടെ വികസനവും ഇതിൽ ഉൾപ്പെടുന്നു അതിനാൽ ഇവ ഡാറ്റാ മാനേജുമെന്റിന്റെ വ്യത്യസ്ത വശങ്ങളാണ് തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇത് പൊതുവെ ഡാറ്റാ മാനേജുമെന്റാണ് കൂടാതെ ഐഐഒടിയുടെയോ ഹഡൂപ്പിനോടൊപ്പമുള്ള ഡാറ്റ മാനേജുമെന്റിന്റെയോ ആവശ്യമില്ല അതാണ് ഞങ്ങൾ അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നാൽ ഡാറ്റാ മാനേജ്മെന്റിന്റെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാട് ഇതാണ് അതിനാൽ ഡാറ്റാ മാനേജുമെന്റിന്റെ വ്യത്യസ്ത ഗുണങ്ങളും മറ്റും അതിനാൽ സമീപ വർഷങ്ങളിൽ ഞങ്ങൾ മുമ്പ് കണ്ടതുപോലെ വലിയ ഡാറ്റയ്ക്കായി പൂർണ്ണമായും സമർപ്പിച്ചിരിക്കുന്ന ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു അതിനാൽ വലിയ ഡാറ്റ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കിയത് ഇപ്പോൾ വലിയ ഡാറ്റ ഒരു പ്രധാന സാങ്കേതികവിദ്യയാണ് കാരണം വലിയ ഡാറ്റയാണ് പ്രത്യേകിച്ചും വ്യാവസായിക പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് IIoT IoT സന്ദർഭങ്ങളിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന മിക്ക ഡാറ്റയും നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഡാറ്റയുടെ സ്വഭാവം സാധാരണഗതിയിൽ ഘടനാപരമല്ലാത്തതും വലിയ ഡാറ്റയുടെ പ്രത്യേകതകളുള്ളതുമാണ് അതിനാൽ വലിയ ഡാറ്റയെക്കുറിച്ചുള്ള പ്രഭാഷണത്തിലെ വലിയ ഡാറ്റയുടെ പശ്ചാത്തലത്തിൽ വലിയ ഡാറ്റയുടെ വ്യത്യസ്ത സ്വഭാവസവിശേഷതകളെക്കുറിച്ച് ഞങ്ങൾ മുമ്പ് ചർച്ച ചെയ്തിരുന്നുവെന്ന് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ 3 V മുതൽ 5 V വരെ 7 V യും കൂടാതെ വലിയ ഡാറ്റയുടെ നിർവചനങ്ങളെക്കുറിച്ചും ഞങ്ങൾ സംസാരിച്ചു ഉയർന്ന അളവിലുള്ള ഉയർന്ന വേഗതയിൽ വരുന്ന ഡാറ്റ ഉയർന്ന വൈവിധ്യങ്ങൾ വേരിയബിളിറ്റി പ്രവേഗം അങ്ങനെ അങ്ങനെ പലതും വ്യത്യസ്തമായ എല്ലാ ആട്രിബ്യൂട്ടുകളും ഈ വലിയ V വലിയ ഡാറ്റ എന്നിവയെ ഘടനാപരമായി ക്രമീകരിക്കാത്ത ഡാറ്റയാണ് അതിനാൽ ഈ ഘടനാപരമായ ഡാറ്റയെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതാണ് വലിയ ഡാറ്റയുടെ ആശങ്ക അതിനാൽ ഇത്തരത്തിലുള്ള ഡാറ്റ കൈകാര്യം ചെയ്യുക ഈ പ്രത്യേക പ്രഭാഷണത്തിൽ ഇത്തരത്തിലുള്ള ഡാറ്റ കൈകാര്യം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഡാറ്റ കൈകാര്യം ചെയ്യുന്നതിന് ഹഡൂപ്പിന്റെ ഉപയോഗത്തിന്റെ ഒരു അവലോകനം ലഭിക്കാൻ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു തീർച്ചയായും നിങ്ങൾക്ക് ഈ ക്ലൌഡ് പ്രവർത്തനക്ഷമതയും ആവശ്യമാണ് ഞങ്ങൾ നേരത്തെ ചർച്ച ചെയ്തവയാണ് കൂടാതെ ഞങ്ങൾ മറ്റൊരു പ്രഭാഷണത്തിൽ ഡാറ്റാ സെന്റർ ഡാറ്റാ സെന്റർ നെറ്റ്വർക്കുകൾ എന്നിവയെക്കുറിച്ചും സംസാരിക്കാൻ പോകുന്നു അതിനാൽ എല്ലാം ഒരുമിച്ച് ചേർക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഡാറ്റ കൈകാര്യം ചെയ്യാൻ പോകുന്നത് അതിനുശേഷം വിശകലനം പ്രോസസ്സിംഗ് ഈ ഡാറ്റയിൽ നിന്ന് ബുദ്ധി അല്ലെങ്കിൽ അർത്ഥം എന്നിവ കണ്ടെത്തുന്നതിന് ഡാറ്റ ഉപയോഗിക്കുക അതിനാൽ സാധാരണയായി വ്യാവസായിക യന്ത്രസാമഗ്രികൾ ധാരാളം വ്യത്യസ്ത സെൻസറുകൾ ആക്യുവേറ്ററുകൾ അങ്ങനെ പലതും വ്യത്യസ്തമായ IoT ഉപകരണങ്ങളുമായി സജ്ജീകരിച്ചിരിക്കുന്നു ഈ മിക്ക IIoT ക്രമീകരണങ്ങളിലും നിങ്ങൾക്ക് ഈ വ്യാവസായിക യന്ത്രസാമഗ്രികൾ ഈ വ്യത്യസ്ത സെൻസറുകൾ ആക്യുവേറ്ററുകൾ എന്നിവ ഉപയോഗിച്ച് ലഭിക്കാൻ പോകുന്നു അടിസ്ഥാനപരമായി ഈ വലിയ ഡാറ്റ സവിശേഷതകളുള്ള വലിയ അളവിലുള്ള ഡാറ്റ സൃഷ്ടിക്കുന്നു അതിനാൽ ഇത്തരത്തിലുള്ള ഡാറ്റ വേണ്ടത്ര കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അതിനാൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് പ്രഭാഷണത്തിൽ ഞങ്ങൾ മുമ്പ് മനസ്സിലാക്കിയ ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് തുടങ്ങിയ വ്യത്യസ്ത മോഡലുകളാണ് ക്ലൌഡ് നിങ്ങളെ സഹായിക്കുന്നത് ഈ വ്യത്യസ്ത ക്ലൌഡ് മോഡലുകളുടെയും ആർക്കിടെക്ചറുകളുടെയും സഹായത്തോടെ ക്ലൌഡ് നിങ്ങളെ ആവശ്യാനുസരണം സ്വയം സേവനം വാഗ്ദാനം ചെയ്യാൻ സഹായിക്കും ആവശ്യാനുസരണം കണക്കുകൂട്ടൽ സേവനം ആവശ്യാനുസരണം കണക്കുകൂട്ടൽ സേവനങ്ങൾ അന്തിമ ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കും വിശാലമായ നെറ്റ്വർക്ക് ആക്സസ് റിസോഴ്സ് പൂളിംഗ് ക്ലൌഡ് ഒരു അളവുകോൽ സേവനമാണ് അതിനാൽ ഈ കണക്കുകൂട്ടൽ വിഭവങ്ങളുടെ ഉപയോഗ യൂണിറ്റുകളെ ആശ്രയിച്ച് ഒരാൾക്ക് ഒന്നാമതായി ഉപയോഗ യൂണിറ്റുകൾ അളക്കാൻ കഴിയും അതനുസരിച്ച് ഒരാൾ പോകുന്നു നിർമ്മിക്കാൻ അതിനാൽ ഉപയോഗിക്കപ്പെടുന്ന അളന്ന സേവനത്തിന്റെ യൂണിറ്റുകളെ ആശ്രയിച്ച് ബില്ലിംഗ് സംഭവിക്കാൻ പോകുന്നു അതിനാൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിന്റെ ഈ വ്യത്യസ്ത സവിശേഷതകളിൽ ചിലത് ഡാറ്റാ മാനേജ്മെന്റിന്റെ പശ്ചാത്തലത്തിൽ ഇത് ജനപ്രിയമാക്കുന്നു അതിനാൽ ക്ലൌഡ് മോഡലുകളായ IaaS PaaS SaaS എന്നിവയ്ക്കൊപ്പം ഞങ്ങൾ ഇപ്പോൾ സംസാരിച്ച വ്യത്യസ്ത സ്വഭാവസവിശേഷതകളെക്കുറിച്ചും ആഴത്തിൽ അല്ലെങ്കിൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് പ്രഭാഷണങ്ങളിൽ ചർച്ച ചെയ്യേണ്ടതുമാണ് അതിനാൽ ഞങ്ങൾ ഒരുമിച്ച് ഡാറ്റ മാനേജുമെന്റിനായി ഇത് ഉപയോഗിക്കാൻ പോകുന്നു അതിനാൽ IoT ബിഗ് ഡാറ്റയുടെ പശ്ചാത്തലത്തിൽ ഒരു പുനരവലോകനം അടിസ്ഥാനപരമായി ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള ഡാറ്റയുടെ ഉപയോഗം അല്ലെങ്കിൽ മാനേജ്മെൻറ് ദൈനംദിന പ്രവർത്തനങ്ങൾക്കും മറ്റും ഉപയോഗിക്കുന്നു സാധാരണയായി ഇന്റർനെറ്റിലൂടെയും ഈ ഉപകരണങ്ങളിലൂടെയും IoT ഉപകരണങ്ങൾ സെൻസറുകൾ മുതലായവയ്ക്ക് അവരുടേതായ വ്യത്യസ്ത ഐഡന്റിറ്റിയുണ്ട് കൂടാതെ ഈ വ്യത്യസ്ത തരം ഡാറ്റകൾ ധാരാളം സൃഷ്ടിക്കുന്നു ഈ സെൻസറുകൾ ഈ വ്യത്യസ്ത യന്ത്രങ്ങൾ വ്യാവസായിക യന്ത്ര ഉപകരണങ്ങൾ മുതലായവയിൽ ഘടിപ്പിച്ചിരിക്കുന്നു ഇവയെല്ലാം അടിസ്ഥാനപരമായി ഇന്റർനെറ്റ് വർക്ക് അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു ധാരാളം ഡാറ്റ സൃഷ്ടിക്കുന്നു നിങ്ങൾ ഈ ഡാറ്റ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ഐഒടി ഡാറ്റ ഐഐഒടി ഡാറ്റ നിങ്ങൾ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ഞങ്ങൾ എന്താണ് സംസാരിക്കുന്നത് IIoT ഡാറ്റ മാനേജ്മെന്റിന്റെ സന്ദർഭം അതിനാൽ മറ്റൊരു പ്രഭാഷണത്തിൽ ഞങ്ങൾ ഡാറ്റാ സെന്ററിനെക്കുറിച്ച് ആഴത്തിൽ സംസാരിക്കാൻ പോകുന്നു എന്നാൽ ഡാറ്റാ സെന്ററുകളിൽ ഇത്തരത്തിലുള്ള വലിയ ഡാറ്റ കൈകാര്യം ചെയ്യുന്നത് വളരെ പ്രധാനമാണ് ഞങ്ങൾ ഇപ്പോൾ സംസാരിച്ച വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള IIoT ഡാറ്റ ഐഒടി ഡാറ്റ ശരിയായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഡാറ്റ സംഭരണം ഡാറ്റയുടെ മാനേജ്മെന്റ് ഡാറ്റയുടെ ഓർഗനൈസേഷൻ ആവശ്യമായ പ്രോസസ്സിംഗ് ശേഷി കണക്കാക്കൽ നൽകൽ എന്നിവയുമായി ബന്ധപ്പെട്ട് ഇത് ചെയ്യേണ്ടതുണ്ട് അതിനാൽ നിങ്ങളുടെ മുൻപിൽ ലിസ്റ്റുചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഡാറ്റാ സെന്ററുകൾ ഉപയോഗപ്രദമാണ് ഡാറ്റ എസ്റ്റിമേറ്റിന്റെ സംഭരണ മാനേജുമെന്റ് ഓർഗനൈസേഷൻ ആവശ്യമായ പ്രോസസ്സിംഗ് ശേഷി നൽകൽ മതിയായ നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ നൽകൽ ഉർജ്ജ ഉപഭോഗം ഫലപ്രദമായി കൈകാര്യം ചെയ്യുക ബാക്കപ്പ് സൂക്ഷിക്കാൻ ഡാറ്റ ആവർത്തിക്കുക ഇത്തരത്തിലുള്ള ഡാറ്റയിൽ നിന്ന് ബിസിനസ്സ് അധിഷ്ഠിത തന്ത്രപരമായ പരിഹാരങ്ങൾ വികസിപ്പിക്കുക വലിയ ഡാറ്റ നിലവിലുള്ള ഡാറ്റ വിശകലനം ചെയ്യാനും ബിസിനസ്സ് പ്രവർത്തനങ്ങളിലെ പ്രശ്നങ്ങൾ കണ്ടെത്താനും ബിസിനസ്സുകാരനെ സഹായിക്കുന്നു IIoT യുടെ പശ്ചാത്തലത്തിൽ വളരെ പ്രാധാന്യമുള്ള ചില ഡാറ്റ കൈകാര്യം ചെയ്യൽ വശങ്ങളാണ് ഇവ കൂടാതെ മറ്റൊരു പ്രഭാഷണത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഡാറ്റാ സെന്ററുകൾ ഈ ഡാറ്റ കൈകാര്യം ചെയ്യുന്നതിനും ഡാറ്റ മാനേജ്മെന്റ് ആവശ്യകതകൾ നിറവേറ്റുന്നതിനും വളരെയധികം സഹായിക്കുന്നു IIoT യുടെ സന്ദർഭം അതിനാൽ ഇത് ഡാറ്റ മാനേജ്മെന്റിന്റെ മൊത്തത്തിലുള്ള പ്രക്രിയയാണ് ഇത് ഡാറ്റയുടെ ജനറേഷനിൽ ആരംഭിക്കുന്നു തുടർന്ന് ഡാറ്റ ഏറ്റെടുക്കൽ അതായത് ഡാറ്റ നേടുക ഡാറ്റ സംഭരിക്കുക അതിനുശേഷം ഡാറ്റ വിശകലനം ചെയ്യുക അതിനാൽ ഡാറ്റ മാനേജുമെന്റ് പ്രക്രിയയിലെ ഈ 4 ഘട്ടങ്ങളിൽ ഓരോന്നിനും അനുബന്ധ ഗുണവിശേഷതകൾ അനുബന്ധ സ്വഭാവവിശേഷങ്ങൾ പരാമർശിക്കുന്നു ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരേയൊരു കാര്യം 2 കാര്യങ്ങളാണ് നമ്പർ 1 സ്റ്റോറേജ് മുതലായവ ഉപയോഗിച്ച് പ്രവർത്തനക്ഷമമാക്കാനും പോകുന്നു അവ NoSQL അന്വേഷണങ്ങളും മറ്റും നടത്താൻ സഹായിക്കും അതിനാൽ NoSQL അടിസ്ഥാനപരമായി ഡാറ്റാബേസുകളെ ചോദ്യം ചെയ്യുന്നു ഇത് ഒരു അന്വേഷണ ഭാഷയാണ് ഇത് ഘടനയില്ലാത്ത ഡാറ്റ സംഭരിക്കുന്ന ഡാറ്റാബേസുകൾ അന്വേഷിക്കാൻ നിങ്ങളെ സഹായിക്കും അതിനാൽ പരമ്പരാഗതമായി നിങ്ങൾ റിലേഷണൽ ടേബിളിൽ ഘടനാപരമായ ഡാറ്റ സംഭരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആ പട്ടികകൾ ചോദിക്കുന്നതിന് നിങ്ങളുടെ SQL SQL ഭാഷ ഉപയോഗിക്കാം എന്നാൽ പട്ടികയുടെ രൂപത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഡാറ്റ ഇല്ലെങ്കിൽ ഇത് NoSQL സഹായിക്കും അതിനാൽ വലിയ ഡാറ്റയ്ക്ക് NoSQL ഉപയോഗപ്രദമാണ് ഘടനയില്ലാത്ത വലിയ ഡാറ്റയ്ക്ക് ഇത് ഉപയോഗപ്രദമാണ് കൂടാതെ NoSQL ഹഡൂപ്പ് മാപ്റഡ്യൂസ് മുതലായവയിൽ നന്നായി പ്രവർത്തിക്കുന്നു അതിനാൽ ഇത് അടിസ്ഥാനപരമായി നിങ്ങളുടെ സംഭരണവും അന്വേഷണങ്ങളുമാണ് കൂടാതെ ഈ പ്രത്യേക സ്ലൈഡിൽ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം അടിസ്ഥാനപരമായി വിശകലനമാണ് വിശകലനത്തിനായി നിങ്ങൾക്ക് അവിടെ ധാരാളം ബ്ലൂം ഫിൽട്ടറുകൾ മെഷീൻ ലേണിംഗ് ക്ലസ്റ്ററിംഗ് പിന്നെ ന്യൂറൽ നെറ്റ്വർക്കുകളുടെ വർഗ്ഗീകരണ ഉപയോഗം SVM ഇവയെല്ലാം ഈ വിശകലനത്തിന് വ്യത്യസ്ത രീതികളിൽ സഹായിക്കും അതിനാൽ ഇത് ഡാറ്റയുടെ ഉത്പാദനം ഡാറ്റ ഏറ്റെടുക്കൽ അതിനുശേഷം ഡാറ്റ സംഭരണം ഒടുവിൽ ഡാറ്റയുടെ വിശകലനം എന്നിവയിൽ ആരംഭിക്കുന്നു അതിനാൽ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ഡാറ്റ സൃഷ്ടിക്കാൻ കഴിയുന്നത് എന്റർപ്രൈസ് ഡാറ്റയായിരിക്കാം അത് ട്രേഡുകളെക്കുറിച്ച് സംസാരിക്കുന്നു ട്രേഡിംഗ് ഡാറ്റ വിവിധ സിസ്റ്റങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത യന്ത്രങ്ങളിൽ നിന്നുള്ള ഡാറ്റ സിസ്റ്റങ്ങളുടെ വിവിധ ഭാഗങ്ങൾ സെയിൽസ് ഡാറ്റ സാമ്പത്തിക ഡാറ്റ ഉൽപാദനക്ഷമത ഡാറ്റ ഇൻവെന്ററി ഡാറ്റ എല്ലാത്തരം എന്റർപ്രൈസ് ഡാറ്റയും IoT ഡാറ്റ എന്നതിനർത്ഥം ഈ വ്യത്യസ്ത വ്യവസായത്തിലെ ഈ യന്ത്രസാമഗ്രികൾ നിർമ്മാണ വ്യവസായം ഗതാഗതം കൃഷി തുടങ്ങിയവ വ്യവസായങ്ങളുടെ പശ്ചാത്തലം അതിനാൽ മെഡിക്കൽ ക്ലിനിക്കുകൾ മെഡിക്കൽ ആർ ഡി എന്നിവയിൽ നിന്നും ജനിതക ശ്രേണി മുതലായ വ്യത്യസ്ത ബയോടെക്നോളജിക്കൽ രീതികളിലൂടെ ബയോ മെഡിക്കൽ ഡാറ്റ സൃഷ്ടിക്കപ്പെടുന്നു അതിനാൽ ഇവയെല്ലാം ഈ വലിയ ഡാറ്റയുടെ ഡാറ്റാ ഉറവിടങ്ങളാണ് മറ്റ് മേഖലകൾ ധാരാളം ഡാറ്റാ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ സൃഷ്ടിക്കുന്നു വലിയ ടെലിസ്കോപ്പുകൾ പോലുള്ള ജ്യോതിശാസ്ത്ര ഉപകരണങ്ങൾ ആകാശത്തേക്ക് 24x7 തുടർച്ചയായി നോക്കുന്നു അതിനാൽ ആ കമ്പ്യൂട്ടേഷണൽ ബയോളജിക്കൽ ഫീൽഡുകൾ ഇത്തരത്തിലുള്ള ധാരാളം ഡാറ്റ സൃഷ്ടിക്കുന്നു അവ ഘടനാപരമല്ലാത്തതും ഈ വലിയ ഡാറ്റാ സവിശേഷതകൾ ഉള്ളതുമാണ് അതിനാൽ ഇവയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഡാറ്റ ഡാറ്റ ലോഗിൻ ചെയ്യുന്നതിനും ഈ ഡാറ്റ ഉറവിടങ്ങളിൽ നിന്ന് സ്വയമേ സൃഷ്ടിച്ച ഡാറ്റ റെക്കോർഡുചെയ്യുന്നതിനും ശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാറ്റ ഏറ്റെടുക്കൽ അടിസ്ഥാനപരമായി ഈ ഡാറ്റ എങ്ങനെ ശേഖരിക്കുകയും ലോഗ് ചെയ്യുകയും ചെയ്യുന്നു ശബ്ദ തരംഗം ശബ്ദം വൈബ്രേഷൻ ഓട്ടോമൊബൈൽ കെമിക്കൽ കറന്റ് കാലാവസ്ഥ മർദ്ദം താപനില മുതലായ സെൻസറി ഡാറ്റ ഇവയെല്ലാം വ്യത്യസ്ത തരം സെൻസറി ഡാറ്റയാണ് ഭൂമിശാസ്ത്രപരമായ സ്ഥാനങ്ങൾ 2 ഡി ബാർകോഡിംഗ് ചിത്രങ്ങൾ വീഡിയോകൾ മുതലായ വ്യത്യസ്ത മൊബൈൽ ഉപകരണങ്ങളുടെ ഉപയോഗത്തിലൂടെ സങ്കീർണ്ണവും വൈവിധ്യമാർന്നതുമായ വിവരശേഖരണം സാധ്യമാണ് സിസ്റ്റത്തിലൂടെ നെറ്റ്വർക്ക് വഴി ഡാറ്റാ ട്രാൻസ്മിഷൻ മറ്റൊരു പ്രഭാഷണത്തിൽ ഇന്റർ ഡാറ്റാസെന്റർ ഡാറ്റാ ട്രാഫിക്കും ഉള്ള വ്യത്യസ്ത പരസ്പരബന്ധിത ഡാറ്റാ സെന്ററുകളിലൂടെ നെറ്റ്വർക്കിലൂടെ എങ്ങനെ ഡാറ്റ അയയ്ക്കാനാകുമെന്ന് ഞങ്ങൾ കാണും അതിനാൽ ഡാറ്റാ സെന്റർ നെറ്റ്വർക്കുകൾക്കുള്ളിലും പുറത്തും ഉള്ള ഡാറ്റ കൈമാറ്റം വളരെ പ്രധാനമാണ് ഡാറ്റയുടെ പ്രീ പ്രോസസ്സിംഗ് കണ്ടെത്തിയേക്കാവുന്ന നിലവിലുള്ള പൊരുത്തക്കേടുകളായേക്കാവുന്ന ശബ്ദ റിഡൻഡൻസി നീക്കം ചെയ്യുന്ന ഡാറ്റ ശേഖരിക്കുന്നു അതിനാൽ പ്രസക്തമായ ഈ പ്രീ പ്രോസസ്സിംഗ് ജോലികളിൽ ചിലത് ഇവയാണ് ഈ വ്യത്യസ്ത ആവശ്യങ്ങൾ സംയോജനം ക്ലീനിംഗ് റിഡൻഡൻസി ലഘൂകരണം എന്നിവയ്ക്കായി ഡാറ്റ മുൻകൂട്ടി പ്രോസസ്സ് ചെയ്യുന്നതും വളരെ പ്രധാനമാണ് ഡാറ്റ ഉത്ഭവിച്ചതും വ്യത്യസ്ത ചാനലുകളിൽ നിന്നുള്ളതാണെങ്കിലും വ്യത്യസ്ത ഉറവിടങ്ങളിൽ നിന്ന് വരുന്നതും ഡാറ്റയുടെ ഏകീകൃത സംയോജിത കാഴ്ച ഉപയോക്താക്കൾക്ക് നൽകുന്നതുമായ ഡാറ്റയുടെ സംയോജനത്തെക്കുറിച്ച് സംയോജനം സംസാരിക്കുന്നു ഈ അപര്യാപ്തത കൃത്യതയില്ലായ്മ തെറ്റായവ എന്നിവ നീക്കംചെയ്യാൻ ഡാറ്റ വൃത്തിയാക്കൽ ആ പ്രത്യേക ഡാറ്റ പരിഷ്ക്കരിക്കുകയോ ആ ഡാറ്റ ഇല്ലാതാക്കുകയോ ചെയ്യുന്ന എന്തെങ്കിലും യുക്തിരഹിതമായ ഡാറ്റ ഉണ്ടെങ്കിൽ ഡാറ്റ ഒഴിവാക്കൽ കണ്ടെത്തലിലൂടെയുള്ള ആവർത്തനം ഫിൽട്ടറിംഗ് ഈ പരിമിതമായ റിസോഴ്സ് ലിമിറ്റഡ് അല്ലെങ്കിൽ റിസോഴ്സ് കോൺസ്റ്റന്റ് നെറ്റ്വർക്കുകൾ വഴി ഡാറ്റ അനാവശ്യമായി കൈമാറുന്നത് ഒഴിവാക്കാൻ ഡാറ്റ പൂർത്തീകരിക്കൽ തുടങ്ങിയ റിഡൻഡൻസികൾ ലഘൂകരിക്കലും ഡാറ്റ പ്രീ പ്രോസസ്സിംഗിന്റെ ഭാഗമായി ചെയ്യുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച NoSQL ഡാറ്റാബേസുകൾ പോലുള്ള പരമ്പരാഗത അല്ലെങ്കിൽ പാരമ്പര്യേതര ഡാറ്റാബേസുകളിൽ ഡാറ്റ സംഭരിക്കുന്നത് വളരെ പ്രധാനമാണ് NoSQL ഡാറ്റാബേസുകളിൽ കീ വാല്യു ഡാറ്റാബേസ് ഈ വ്യത്യസ്ത ഡാറ്റാബേസുകളിലെ ഓരോ ഡാറ്റയും എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നതിനുള്ള അനുബന്ധ ടെക്നിക്കുകൾ എന്നിവയെ ഞങ്ങൾ പിന്തുണയ്ക്കും ഫയലുകളിലെ ഡാറ്റ സംഭരണം GFS ഗൂഗിൾ ഫയൽ സിസ്റ്റം വലിയ ഫയൽ സിസ്റ്റം ഡാറ്റാ സ്റ്റോർ വിവിധ ഫയൽ സിസ്റ്റങ്ങളിൽ HDFS എന്നിവ സംഭരിക്കുന്ന വിതരണ ഫയൽ സിസ്റ്റത്തിന്റെ ശ്രദ്ധേയമായ ഉദാഹരണമാണ് ഡാറ്റ സംഭരണത്തിനായി ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റങ്ങളുടെ വ്യത്യസ്ത ഉദാഹരണങ്ങളാണ് ഇവ അതിനാൽ വ്യാവസായിക ഡാറ്റയാണ് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച ഈ വ്യത്യസ്ത സാങ്കേതിക വിദ്യകളെല്ലാം ഉപയോഗിച്ച് അത്തരം ഡാറ്റ കൈകാര്യം ചെയ്യുന്ന IIoT വ്യാവസായിക ഡാറ്റയുമായി ബന്ധപ്പെട്ടത് വ്യാവസായിക ഡാറ്റ മാനേജുമെന്റ് ഉൾപ്പെടുത്തുന്നത് അടിസ്ഥാനപരമായി വ്യത്യസ്ത പ്രോസസ്സിംഗ് പ്ലാന്റ് നിർമ്മാണ പ്ലാന്റുകളിൽ നിന്ന് സൃഷ്ടിക്കുന്ന ഡാറ്റ ഉൾപ്പെടുത്തുകയും മാനേജ്മെന്റ് മുഴുവൻ മൂല്യ ശൃംഖലയിലും നടത്തുകയും ചെയ്യും അതിനാൽ അടിസ്ഥാനപരമായി എന്താണ് അർത്ഥമാക്കുന്നത് അന്തിമ ഉപയോക്താക്കൾക്ക് ശരിയായ രീതിയിൽ മൂല്യം എത്തിക്കുന്നതിന് വ്യാവസായിക ഡാറ്റ ശരിയായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഈ മൂല്യ ശൃംഖല പരിഗണന വളരെ പ്രധാനമാണ് വ്യാവസായിക ഡാറ്റ സാഹചര്യങ്ങളിൽ ഡാറ്റയുടെ ലഭ്യത ഉറപ്പാക്കേണ്ടതുണ്ട് അതിനാൽ പിന്നീട് ബുദ്ധിശക്തി നേടുന്നതിനായി ഡാറ്റയുടെ ലഭ്യത കാരണം തുടർച്ചയായി വരുന്ന ഡാറ്റ മുതലായവ വേണ്ടത്ര കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് അർത്ഥശൂന്യമാണ് അടിസ്ഥാനപരമായി ഡാറ്റ ശരിയായി ലഭ്യമല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിശക്തി നേടുന്നത് അർത്ഥശൂന്യമാണ് അതിനെക്കുറിച്ച് കൂടുതൽ ബുദ്ധി ഉണ്ടാക്കുക അതിനാൽ ഇത് അടിസ്ഥാനപരമായി ഡാറ്റയുടെ ഉയർന്ന ലഭ്യതയെ സഹായിക്കും ആവശ്യമുള്ളപ്പോഴെല്ലാം ശരിയായ തീരുമാനമെടുക്കാൻ സഹായിക്കും അസംസ്കൃത വസ്തുക്കളുടെ ഉപഭോഗം ഉൽപാദന സവിശേഷതകൾ ഉർജ്ജ ഉപഭോഗം പ്ലാന്റ് ഉപയോഗം രോഗനിർണയ വിവരങ്ങൾ എന്നിങ്ങനെ വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഒരു പ്രത്യേക നിർമ്മാണ പ്ലാന്റിന്റെ ഉൽപാദന ഡാറ്റ ലഭ്യമാക്കുന്നു എന്നതാണ് വ്യാവസായിക ഡാറ്റ മാനേജ്മെന്റിന്റെ പ്രയോജനങ്ങൾ മാനേജ്മെന്റ് നമുക്ക് ഒരു ഓട്ടോമേറ്റഡ് പ്രക്രിയ നടപ്പിലാക്കേണ്ടതുണ്ട് അത് ഈ ഡാറ്റ മാനേജ്മെന്റ് പ്രവർത്തനങ്ങളെല്ലാം സ്വയംഭരണാധികാരത്തോടെ ചെയ്യും അതിനാൽ IIoT സാഹചര്യങ്ങളിൽ ഡാറ്റാ മാനേജ്മെന്റിനായി ഒരു ജനപ്രിയ സാങ്കേതികവിദ്യ എങ്ങനെ ഉപയോഗിക്കാം എന്നതിന്റെ ഒരു പ്രത്യേക ഉദാഹരണം നമുക്ക് ഇപ്പോൾ എടുക്കാം അപ്പോൾ എന്താണ് ഹദൂപ് ഹഡൂപ്പ് അടിസ്ഥാനപരമായി അപ്പാച്ചെയിൽ നിന്നുള്ള വളരെ പ്രശസ്തമായ ഒരു സാങ്കേതികവിദ്യയാണ് അത് വലിയ ഡാറ്റാസെറ്റുകളുടെ വിതരണ പ്രോസസ്സിംഗിനായി ഒരു സോഫ്റ്റ്വെയർ ഫ്രെയിംവർക്ക് നൽകുന്നു നിങ്ങൾക്ക് വലിയ ഡാറ്റാ സെറ്റുകൾ കമ്പ്യൂട്ടർ ക്ലസ്റ്ററിൽ ആ ഡാറ്റ സെറ്റുകളുടെ പ്രോസസ്സിംഗ് വിതരണം ചെയ്യുന്നു അതിനാൽ GFS MapReduce MapReduce HDFS ഘടകങ്ങൾ എന്നിവയ്ക്കായുള്ള ഓപ്പൺ സോഴ്സ് നടപ്പാക്കൽ ഇവയെല്ലാം ഹഡൂപ്പിന്റെ വ്യത്യസ്ത വശങ്ങളാണ് അതിനാൽ ഹഡൂപ്പിന്റെ വ്യത്യസ്ത ബിൽഡിംഗ് ബ്ലോക്കുകൾ ഉണ്ട് അതിനാൽ നമ്പർ വൺ ഹഡൂപ്പ് കോമൺ ആണ് ഇത് അടിസ്ഥാനപരമായി ഒരു പൊതു ഘടകമാണ് അടിസ്ഥാനപരമായി ഞാൻ അടുത്തതായി പരാമർശിക്കാൻ പോകുന്നതുപോലുള്ള മറ്റ് ഹഡൂപ്പ് ഘടകങ്ങളെ പിന്തുണയ്ക്കുന്ന യൂട്ടിലിറ്റികൾ അടങ്ങുന്ന ഒരു മൊഡ്യൂളാണ് ഇത് അതിനാൽ ഇത് അടിസ്ഥാനപരമായി ഒരു സാധാരണ മൊഡ്യൂളാണ് ഇത് മറ്റ് മൊഡ്യൂളുകളെ ഒരുമിച്ച് ബന്ധിപ്പിച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കും HDFS ആണ് ഹഡൂപ്പിലെ പ്രധാന കാര്യം HDFS ഹഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റമാണ് ഹഡൂപ്പിന്റെ കാതൽ ഇത് വിശ്വസനീയമായ ഡാറ്റ സംഭരണവും സിസ്റ്റത്തിലെ വിവിധ നോഡുകളിലുടനീളമുള്ള ആക്സസും നൽകുന്നു എച്ച്ഡിഎഫ്എസ് ആർക്കിടെക്ചറിന് അന്തർലീനമായ ഹഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം എച്ച്ഡിഎഫ്എസ് തെറ്റ് സഹിഷ്ണുത സെഷൻ ആട്രിബ്യൂട്ട് എന്നിവയുടെ സഹായത്തോടെ നോഡുകൾക്കിടയിൽ ദ്രുതഗതിയിലുള്ള ഡാറ്റ കൈമാറ്റം സാധ്യമാകും ഈ HDFS ആർക്കിടെക്ചർ ഞാൻ പിന്നീട് കാണിച്ചുതരാം HDFS ആർക്കിടെക്ചറിന് അടിസ്ഥാനപരമായി വ്യത്യസ്ത പാളികളുണ്ട് ഈ പാളികളിലൊന്നിൽ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് ഉള്ളത് യഥാർത്ഥത്തിൽ ഡാറ്റ അടങ്ങിയിരിക്കുന്ന ബ്ലോക്കുകൾ എന്നാണ് അതിനാൽ HDFS ൽ സംഭവിക്കുന്നത് ഈ ബ്ലോക്കുകൾ ആവർത്തിക്കപ്പെടുന്നു എന്നതാണ് അതിനാൽ അടിസ്ഥാനപരമായി ഞാൻ പിന്നീട് നിങ്ങളോട് പറയുന്ന വ്യത്യസ്ത ഡാറ്റാ നോഡുകൾ ഈ ഡാറ്റാ നോഡുകൾക്ക് അടിസ്ഥാനപരമായി വ്യത്യസ്ത ബ്ലോക്കുകളുണ്ട് കൂടാതെ ഈ ബ്ലോക്കുകൾ ഓരോന്നും ഒന്നിലധികം ഡാറ്റാ നോഡുകളിൽ ആവർത്തിക്കുന്നു അതിനാൽ ഇത് അടിസ്ഥാനപരമായി തെറ്റ് സഹിഷ്ണുത ഉറപ്പാക്കുന്നു ഈ വ്യത്യസ്ത ബ്ലോക്കുകളിലൊന്നിൽ എന്തെങ്കിലും തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ മറ്റ് ബ്ലോക്കുകൾ ഈ വ്യത്യസ്ത ബ്ലോക്കുകളുടെ പകർപ്പുകൾ മറ്റ് ഡാറ്റാ നോഡുകളിൽ ഉണ്ട് അതിനാൽ ഹഡൂപ്പിന്റെ മറ്റ് ബിൽഡിംഗ് ബ്ലോക്കുകൾ മാപ് റിഡ്യൂസ് ഇൻപുട്ട് ചെയ്യുന്നു ഇത് ധാരാളം വലിയ അളവിലുള്ള ഡാറ്റാബേസുകൾ സമാന്തരമായി പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള ഒരു ചട്ടക്കൂട് പോലെയാണ് ഇത് ഒരു മാപ്പ് റിഡ്യൂസ് ആണ് മാപ്റെഡ്യൂസ് ഹഡൂപ്പിലും പ്രധാനമാണ് എന്നാൽ ധാരാളം തരം അൽഗോരിതങ്ങൾ ഉള്ള അൽഗോരിതങ്ങൾ മാപ് റിഡ്യൂസ് ചെയ്യുക ഇത് ഒരു തത്ത്വചിന്ത മാത്രമാണ് ഇത് ഹഡൂപ്പ് അടിസ്ഥാനപരമായി ഉപയോഗിക്കുന്ന ഒരു ചട്ടക്കൂടാണ് അതിനാൽ YARN അടിസ്ഥാനപരമായി അടുത്ത തലമുറയിലെ മാപ്റെഡ്യൂസ് ആണ് അത് വ്യത്യസ്ത കമ്പ്യൂട്ടറുകളുടെ ഹഡൂപ്പി ക്ലസ്റ്ററിൽ പ്രവർത്തിക്കുന്ന വിവിധ ആപ്ലിക്കേഷനുകളിലേക്ക് CPU മെമ്മറി സ്റ്റോറേജ് എന്നിവ നൽകുന്നു അതിനാൽ ഹഡൂപ്പിന്റെ കേന്ദ്രമായ ഈ HDFS ഇങ്ങനെയാണ് അതിനാൽ HDFS ൽ നിങ്ങൾക്ക് 2 തരം നോഡുകൾ ഉണ്ട് ഒന്ന് Namenode മറ്റൊന്ന് Datanode നെയിം നോഡ് കേന്ദ്രീകൃത നോഡാണ് അതിനാൽ ഈ പ്രത്യേക ജോബ് ട്രാക്കർ ഒരു നെയിംനോഡാണ് അതിനാൽ ഇത് നാമനോഡിൽ ചെയ്യുന്നു അതിനാൽ ഇതൊരു കേന്ദ്രീകൃത നോഡാണ് അതിനുശേഷം നിങ്ങൾക്ക് വ്യത്യസ്തമായ മറ്റ് ടാസ്ക് ട്രാക്കറുകൾ ഉണ്ട് അവ അടിസ്ഥാനപരമായി ഡാറ്റ നോഡുകളിൽ നടപ്പിലാക്കുന്നു അതിനാൽ ഈ നെയിംനോഡ് അടിസ്ഥാനപരമായി കേന്ദ്രീകൃത നോഡ് വ്യത്യസ്ത ഫയലുകളെക്കുറിച്ചുള്ള എല്ലാ മെറ്റാ ഡാറ്റയും പരിപാലിക്കുന്നു വ്യത്യസ്ത മെറ്റാ ഡാറ്റ അടിസ്ഥാനപരമായി നെയിംനോഡിലെ വ്യത്യസ്ത ഫയലുകളെക്കുറിച്ച് പരിപാലിക്കുന്നു അതേസമയം വിതരണം ചെയ്ത നോഡ് ഈ ടാസ്ക് ട്രാക്കർ ഡാറ്റാനോഡുകൾ മുതലായവ യഥാർത്ഥ ഡാറ്റ സംഭരിക്കുന്നു ഈ ഫയലുകൾ ഇവയെ വ്യത്യസ്ത ബ്ലോക്കുകളായി തിരിച്ചിരിക്കുന്നു ഈ വ്യത്യസ്ത ബ്ലോക്കുകൾ ഓരോന്നും ആവർത്തിക്കുന്നു ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് ഈ വ്യത്യസ്ത ബ്ലോക്കുകൾക്ക് അവരുടേതായ ഡാറ്റയുണ്ട് ഡാറ്റ ഈ വ്യത്യസ്ത ഡാറ്റാനോഡുകളിലുടനീളം ആവർത്തിക്കുന്നു HDFS വാസ്തുവിദ്യ അതിനാൽ ഫയൽ സിസ്റ്റത്തെക്കുറിച്ചുള്ള മെറ്റാഡാറ്റ സംഭരിക്കുന്ന ഒരു കേന്ദ്രീകൃത സ്ഥാപനമാണ് നെയിംനോഡ് അതിനാൽ നെയിംനോഡ് ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഈ ഡാറ്റാ നോഡുകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അവ അസന്തുലിതമാക്കാം ഈ ഡാറ്റാനോഡ് ലെയറിൽ പരസ്പരം ഡാറ്റ പകർത്താൻ കഴിയും കൂടാതെ ബ്ലോക്ക് വിവരങ്ങളോടെ നാമോഡ് ഇടയ്ക്കിടെ അപ്ഡേറ്റ് ചെയ്യുന്നു അതിനാൽ നെയിംനോഡിന് ശരിയായ മെറ്റാഡാറ്റയും പുതുക്കിയ മെറ്റാഡാറ്റയും ഉണ്ട് അതിനാൽ ഡാറ്റ നോഡുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഡാറ്റയുടെ സമഗ്രത ഉറപ്പുവരുത്തുന്നതിനുള്ള തുക പരിശോധിക്കുക അതിനാൽ ജോബ് ട്രാക്കറിന്റെയും ഈ ആശയങ്ങളാണോ ജോബ് ട്രാക്കർ അടിസ്ഥാനപരമായി നെയിം നോഡുകളിൽ പ്രവർത്തിക്കുന്നു ടാസ്ക് ട്രാക്കറുകൾ ഡാറ്റ നോഡിലെ ടാസ്കിൽ പ്രവർത്തിക്കുന്നു അതിനാൽ ഈ ജോബ് ട്രാക്കറിന് ഉപയോക്താക്കളുടെ ജോലി ലഭിക്കുന്ന ഈ നെയിം നോഡുകൾ മാപ്പിംഗ് എന്ന ആശയം ഉപയോഗിച്ച് എത്ര ജോലികൾ ചെയ്യുമെന്നും എത്ര ജോലികൾ ഏത് ജോലികൾ പ്രവർത്തിപ്പിക്കുമെന്നും മാപ്പിംഗ് നടത്തുമെന്ന് തീരുമാനിക്കും ഈ വ്യത്യസ്ത ജോലികളിൽ ഓരോന്നും എവിടെ ഓടണമെന്ന് തീരുമാനിക്കുക ടാസ്ക് ട്രാക്കറിൽ മറുവശത്ത് ഈ ഓരോ ഡാറ്റാ നോഡിലും പ്രവർത്തിക്കും അതിനാൽ ഇത് ഒരു ഡാറ്റ നോഡാണ് ഇത് മറ്റൊരു ഡാറ്റ നോഡാണ് അതിനാൽ ഈ ടാസ്ക് ട്രാക്കറുകൾ അവയിൽ പ്രവർത്തിക്കുന്നു അടിസ്ഥാനപരമായി ജോലി ട്രാക്കറിൽ നിന്ന് ടാസ്ക്കുകൾ സ്വീകരിക്കുന്ന ഡാറ്റ സ്വീകരിക്കുന്നു അതിനാൽ ഈ ഡാറ്റ നോഡുകളിൽ ഇവിടെ നിർവ്വഹിക്കാൻ പോകുന്ന ഈ ജോലികൾ വീണ്ടെടുക്കാൻ പോകുന്നത് ജോബ് ട്രാക്കറിൽ നിന്ന് ലഭിക്കുകയും അവ എല്ലായ്പ്പോഴും ജോബ് ട്രാക്കറുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യും ടാസ്ക് ട്രാക്കർ പോകുന്നു ജോബ് ട്രാക്കറുമായി ആശയവിനിമയം നടത്തുക ഇവ എല്ലായ്പ്പോഴും ജോലി ട്രാക്കറിലേക്ക് പുരോഗതി അറിയിക്കുകയും ചെയ്യും അതിനാൽ അടിസ്ഥാനപരമായി ഇത് ഒരു മാസ്റ്റർ സ്ലേവ് ആർക്കിടെക്ചർ ആണ് അടിസ്ഥാനപരമായി മാസ്റ്റർ ഓപ്പണിംഗ് ക്ലോസിംഗ് ഫയലുകളുടെയും നിഘണ്ടുക്കളുടെയും പേരുമാറ്റൽ ബ്ലോക്ക് മാപ്പിംഗ് ഡാറ്റ നോഡുകളിലേക്ക് നിർണയിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിർവ്വഹിക്കുന്നു ഫയൽ സിസ്റ്റം ക്ലയന്റുകളിൽ നിന്ന് ഒരിക്കൽ വായിക്കുകയും എഴുതുകയും അഭ്യർത്ഥന എഴുതുകയും ബ്ലോക്ക് സൃഷ്ടിക്കൽ ഇല്ലാതാക്കൽ തനിപ്പകർപ്പ് തുടങ്ങിയവ നടത്തുകയും ചെയ്യുന്നവരാണ് അടിമകൾ അതിനാൽ ഇത് അടിസ്ഥാനപരമായി ഇത് നിങ്ങളുടെ മാസ്റ്റർ നോഡായി മാറുന്നു നെയിം നോഡ് ഒരു മാസ്റ്റർ നോഡായി മാറുന്നു ഇവ അടിമ നോഡുകളും സ്ലേവ് നോഡുകളും പോലെ അടിസ്ഥാനപരമായി തുടർച്ചയായി ജോബ് ട്രാക്കറിൽ നിന്ന് വ്യത്യസ്ത ജോലികൾ ലഭിക്കുന്നു ഡാറ്റാ നോഡുകളും അടിസ്ഥാനപരമായി ഈ ടാസ്ക് ട്രാക്കറും ടാസ്ക് പൂർത്തിയാക്കിയതിന് ശേഷമോ അല്ലെങ്കിൽ അതിനിടയിലോ അവർ ജോലി ട്രാക്കറിലേക്ക് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യും അതിനാൽ ഇത് അടിസ്ഥാനപരമായി യജമാനനാണ് ഇത് നിങ്ങളുടെ വ്യത്യസ്ത അടിമകളായി മാറുന്നു അതിനാൽ ഞാൻ ഇവിടെ എടുത്തുകാണിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം മോംഗോഡിബി എന്നറിയപ്പെടുന്ന ഒന്നാണ് അതിനാൽ അടിസ്ഥാനപരമായി ഡാറ്റാബേസുകൾ വ്യത്യസ്ത ഡാറ്റാബേസുകൾ എന്നിവ പിന്തുണയ്ക്കുന്ന ഒരു ഡാറ്റാ മാനേജുമെന്റ് ഉപകരണമാണ് മോംഗോഡിബി പ്രത്യേകിച്ചും IIoT ന്റെ ഈ പശ്ചാത്തലത്തിൽ ഞങ്ങൾ NoSQL ഡാറ്റാബേസിനെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ സാധാരണയായി അനുഭവിക്കുന്ന ഘടനാപരമായ ഡാറ്റയാണ് അതിനാൽ NoSQL ഡാറ്റാബേസിനെ മോംഗോഡിബി പിന്തുണയ്ക്കുന്നു ഇത് മോംഗോഡിബി ഡാറ്റാബേസ് ആണെന്ന് ഉറപ്പുവരുത്തുന്നു അടിസ്ഥാനപരമായി ഇത് ഒരു ഡാറ്റാബേസ് ആണ് ഇത് ഒരു NoSQL ഡാറ്റാബേസ് ആണ് ഇത് ഹഡൂപ്പുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു അതിനാൽ ഈ പ്രത്യേക ഡാറ്റാബേസ് പ്രകടനം മെച്ചപ്പെടുത്തൽ പ്രകടനം ഉറപ്പാക്കൽ മൊത്തത്തിലുള്ള മികച്ച പ്രകടനം ഉറപ്പാക്കൽ സ്കേലബിളിറ്റി ലഭ്യത തുടങ്ങിയവ ഉറപ്പാക്കുകയും എന്റർപ്രൈസിലുടനീളം ഡാറ്റയുടെ സമാനമായ കാഴ്ച സൃഷ്ടിക്കുകയും ചെയ്യും അതിനാൽ മോംഗോഡിബി അടിസ്ഥാനപരമായി മംഗോഡിബി ഹഡൂപ്പിനൊപ്പം പ്രവർത്തിക്കുന്നു അതിനാൽ സങ്കീർണ്ണമായ വിശകലനത്തിനായി മംഗോഡിബിയിലേക്ക് ശക്തമായ ഒരു ചട്ടക്കൂടായി ഹഡൂപ്പ് കൂട്ടിച്ചേർക്കുന്നു കൂടാതെ ബാച്ച് അഗ്രഗേഷൻ ഡാറ്റാ വെയർഹൌസിംഗ് ഇടിഎൽ ഡാറ്റ തുടങ്ങിയ മോംഗോഡിബി പിന്തുണയ്ക്കുന്നു അതായത് ഡാറ്റയുടെ പരിവർത്തനവും ലോഡും എക്സ്ട്രാക്റ്റുചെയ്യുക ഇത് അടിസ്ഥാനപരമായി ഡാറ്റാബേസുകളുടെ പശ്ചാത്തലത്തിൽ ETL എന്ന പൊതുവായ പദമാണ് അതിനാൽ ETL ഡാറ്റ കൈകാര്യം ചെയ്യൽ അതിനാൽ ബാച്ച് അഗ്രഗേഷൻ ഡാറ്റ വെയർഹൌസിംഗും ഇടിഎൽ ഡാറ്റ കൈകാര്യം ചെയ്യുന്നതും ഇവയാണ് ഹഡൂപ്പിനൊപ്പം മംഗോഡിബിയുടെ വ്യത്യസ്ത സ്വഭാവസവിശേഷതകൾ അല്ലെങ്കിൽ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ അതിനാൽ ഈ പ്രത്യേക പ്രഭാഷണത്തിന്റെ അവസാനത്തോടെ ഞങ്ങൾ നിങ്ങൾക്ക് ഈ വ്യത്യസ്തമായ റഫറൻസുകൾ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നതിന് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഡാറ്റാ മാനേജുമെന്റുമായി വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഹഡൂപ്പ് ജനപ്രിയമായത് മോംഗോഡിബി വളരെ ജനപ്രിയമാണ് മാപ്റെഡ്യൂസും വളരെ ജനപ്രിയമാണ് ഇവ ഒരിക്കൽ കൈകോർത്ത് പ്രവർത്തിക്കുന്നു ഇത് ഐഐഒടിയുടെ പശ്ചാത്തലത്തിൽ സാധാരണയായി അനുഭവപ്പെടുന്ന വലിയ ഡാറ്റയുടെ ശരിയായ ഡാറ്റ മാനേജുമെന്റിൽ നിങ്ങളെ സഹായിക്കും അതിനാൽ ഇത് അവസാനിക്കുന്നു ഇവിടെ ലിസ്റ്റുചെയ്തിരിക്കുന്ന വ്യത്യസ്ത റഫറൻസുകളുടെ ശേഖരമാണിത്